ഹലോ മാനുഫാക്ചറിംഗ് സിസ്റ്റം ടെക്നോളജി പാർട്ട് 2 മൊഡ്യൂൾ 17 ലേക്ക് സ്വാഗതം നമ്മൾ വ്യത്യസ്ത control ചാർട്ടുകളെക്കുറിച്ചാണ് സംസാരിച്ചത് അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ എക്സ് ചാർട്ട് ആർ ചാർട്ട് എന്നിവ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ R ചാർട്ടുകളിൽ ഈ X̄ പ്ലോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നോക്കാം കൂടാതെ എനിക്ക് ആവശ്യമുള്ള ഒരു ചെക്ക്ലിസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ റെക്കോർഡിംഗിന് ലെവൽ എങ്ങനെ ചേർക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു കൂടാതെ R ചാർട്ടുകളിൽ ഈ X̄ സൃഷ്ടിക്കുന്നതിനുമുമ്പ് ഒരാൾ ശ്രദ്ധിക്കേണ്ട വിവിധ വശങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി അതിൽ കാണാം അതിനാൽ എടുക്കേണ്ട തീരുമാനങ്ങളും കണക്കുകൂട്ടലുകളും ദൃശ്യവൽക്കരിക്കുന്നതിന് ഇത് സഹായകരമാണ് കൂടാതെ X̄ ആർ ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നതിന് എടുക്കേണ്ട നടപടികളും അവയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു അതിലൊന്ന് കൺട്രോൾ ചാർട്ടുകൾക്ക് തയ്യാറെടുക്കുന്ന തീരുമാനങ്ങളാണ് മറ്റൊന്ന് control ചാർട്ടുകൾ ആസൂത്രണം ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ആ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അതിനാൽ ഒന്നാമതായി നിങ്ങൾ ചില ലക്ഷ്യങ്ങൾ ശരിയാക്കണം അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മില്ലിംഗിന്റെ സ്ലോട്ട് വീതി നിരീക്ഷിക്കുന്നു എന്ന് വിചാരിക്കുക ഒരു മില്ലുചെയ്ത ഉൽപ്പന്നത്തെക്കുറിച്ചും അടിസ്ഥാനപരമായി FACE മില്ലിംഗ് ഓപ്പറേഷൻ നടത്തുന്നതിനെക്കുറിച്ചും നിങ്ങൾക്കറിയാം തുടർന്ന് മൂന്നോ നാലോ മില്ലിംഗ് ഓപ്പറേഷന് പരിശീലനം നൽകുന്നതും ഉൽപ്പന്നത്തിനുള്ളിൽ ഒരു സ്ലോട്ട് സൃഷ്ടിക്കാൻ പരിശീലനം നൽകുന്നതും ഒന്നായിരിക്കാം നിരീക്ഷണങ്ങളുടെ റെക്കോർഡിങ്ങുകൾ ഒന്നായിരിക്കാം അത്തരമൊരു നിയന്ത്രണ ചാർട്ടിൽ സ്ലോട്ട് ചെയ്യേണ്ട പ്രത്യേക അളവ് നിലനിർത്തുന്നുണ്ടോയെന്ന് കാണുക അത് കട്ടർ wear കൊണ്ട് ആയിരിക്കാം അത് കട്ടർ ഇന്റെ തേയിമാനം ഉണ്ടാക്കും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന അളവിലെ മാറ്റം കാരണം മോശം യന്ത്ര വ്യവസ്ഥകൾ കാരണം വൈബ്രേഷനും ചാറ്ററും ഉണ്ടാകാം അതിനാൽ സ്ഥലത്ത് നിലവിലുള്ള പ്രത്യേക മില്ലിംഗ് സിസ്റ്റങ്ങളുടെ സ്ലോട്ട് വീതി അളക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക രീതിയിൽ അളവുകൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇത് പ്രക്രിയ ആരംഭിക്കുന്നു നിങ്ങൾക്ക് സാധ്യമായ ലക്ഷ്യം എന്നത് വേരിയബിളുകളുടെ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷേ സ്പോട്ട് വീതി ആയിരിക്കും ഇവിടെ ഇത് വേരിയബിളാണ് ഇത് പ്രക്രിയയുടെ ഗുണനിലവാരത്തിന്റെ പ്രതിഫലന വേരിയബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഉപഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കണം അടിസ്ഥാനപരമായി ഇത് ശരിക്കും നിങ്ങളുടെ ശരാശരി ഉൽപാദന നിലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉപഗ്രൂപ്പ് വലുപ്പം വളരെ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഉപഗ്രൂപ്പുകൾ അടിസ്ഥാനപരമായി ഉത്പാദന ദൈർഘ്യം എന്നാണ് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് നിർമ്മിക്കാൻ 1000 ഇനങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് എല്ലാം തുടർച്ചയായി അളക്കുന്നത് തുടരാനാവില്ല അതിനാൽ പ്രൊഡക്ഷൻ ഷിഫ്റ്റിന്റെ മുഴുവൻ ഓട്ടത്തിനിടയിലും നിങ്ങൾ ചെറിയ ഉപഗ്രൂപ്പുകൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് സമയാസമയങ്ങളിൽ മുഴുവൻ ബാച്ചിനും ഇത് റെക്കോർഡുചെയ്യേണ്ടതുണ്ട് നമ്മൾ കുറച്ച് നിരീക്ഷണം റെക്കോർഡുചെയ്യാൻ ആരംഭിച്ചുകഴിഞ്ഞാൽ ആ പ്രത്യേക ഇവന്റ് കാലയളവിൽ റെക്കോർഡിംഗ് അറിയുന്നതിന് മുമ്പായി കുറഞ്ഞത് കുറച്ച് നമ്പറുകളെങ്കിലും തുടരേണ്ടതുണ്ട് തുടർന്ന് അടുത്ത ഇവന്റ് കാലയളവിലേക്ക് പോകുക അതിനാൽ മുഴുവൻ ഉൽപാദന ഷിഫ്റ്റിലും വ്യത്യസ്ത ഇവന്റ് പിരീഡുകളുണ്ട് ഇത് 5 നിരീക്ഷണങ്ങളുടെ ഒരു ഗ്രൂപ്പായിരിക്കാം 5 ഉൽപാദന നിരയിലെ ഓരോ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഇനമാകാം അതിനാൽ നിങ്ങൾ അടിസ്ഥാനപരമായി ഓരോ മൂന്നാമത്തെ ഇനവും 5 തവണ റെക്കോർഡുചെയ്യുന്നു ഉപഗ്രൂപ്പ് വലുപ്പം 5 ആണെന്ന് നമുക്ക് പറയാം തുടർന്ന് കുറച്ച് മണിക്കൂറുകൾ കാത്തിരിക്കുന്നു തുടർന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഓരോ 5 ഉം ഓരോ 3 ഉം ഇനവും 5 തവണ വീണ്ടും റെക്കോർഡുചെയ്യുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഒരു സ്കീം വികസിപ്പിക്കാൻ കഴിയും അത് നിങ്ങൾ സൂപ്പർവൈസർ ആയിരുന്നപ്പോൾ നിങ്ങളുടെ പ്രായോഗിക തീരുമാനമെടുക്കലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങൾക്ക് സ്വയം ബന്ധപ്പെടുത്താൻ താൽപ്പര്യമുണ്ട് നിങ്ങൾക്ക് ഒരു പ്രോസസ് പരിജ്ഞാനമുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഏത് തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം വ്യത്യാസങ്ങൾ സംഭവിക്കുന്ന ഇടവേള എന്താണ് ഇതെല്ലം ഉപഗ്രൂപ്പ് വലുപ്പത്തെ നിർണ്ണയിക്കാൻ ഇടയാക്കും അതിനാൽ ഉപഗ്രൂപ്പുകളുടെ വലുപ്പത്തിലും ആവൃത്തിയിലും തീരുമാനമുണ്ട് അതിനാൽ ഉപഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതിന് ശേഷം ഉപഗ്രൂപ്പിന്റെ വലുപ്പവും ആവൃത്തിയും നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ നേരത്തെ എടുത്ത തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കി ഡാറ്റ റെക്കോർഡുചെയ്യുന്നതിനുള്ള ഫോമുകൾ നിങ്ങൾ സജ്ജമാക്കി വാസ്തവത്തിൽ അടുത്ത സ്ലൈഡിൽ അത്തരമൊരു ഫോം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു അവിടെ ഡാറ്റയുടെ ഈ റെക്കോർഡിംഗ് എങ്ങനെ നടപ്പിലാക്കാമെന്നതിന്റെ സംഘടിത പ്രാതിനിധ്യം നമുക്ക് കാണാം എന്നിട്ട് വ്യക്തമായും ഇത് ഒരു Vernire Caliper ഉം ആയി അളക്കുന്നതിനുള്ള രീതി നിങ്ങൾ നിർണ്ണയിക്കുന്നു അത് അളക്കാനായി സ്ലോട്ടിൽ ചേർക്കുന്നുണ്ടോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി വിന്യസിക്കുന്ന നിങ്ങൾ നിർമ്മിച്ച ഗേജുമായി ഇത് എന്തെങ്കിലും ചെയ്യുമോ ആ സ്ലോട്ട് വീതിയിലേക്ക് പോകുന്ന ഒരു നിശ്ചിത മൂല്യങ്ങളുടെ പ്രത്യേക ഗേജ് ആണോ എന്ന് നോക്കാം അതിനാൽ ഇതുപോലുള്ള നിരവധി ഓപ്ഷനുകൾ ലഭ്യമാണ് അതിനാൽ കൺട്രോൾ ചാർട്ടുകൾക്ക് തയ്യാറെടുപ്പ് നടത്തിയ ശേഷം കൺട്രോൾ ചാർട്ടുകൾ എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്നതാണ് ചോദ്യം അതിനാൽ അളവുകൾ ഉണ്ടാക്കി റെക്കോർഡുചെയ്യുക പ്രസക്തമായ മറ്റ് ഡാറ്റകൾ റെക്കോർഡുചെയ്യുക ഈ ഓരോ ഉപഗ്രൂപ്പുകളുടെയും ശരാശരി X̄ കണക്കാക്കുക Range അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് maximum observation minus the minimum observations ആണ് അതിനാൽ നിങ്ങൾക്ക് ഒരു R' ഉണ്ട് നിങ്ങൾക്ക് അടുത്ത ഇരട്ട ബാർ ഉണ്ട് അടുത്തതായി നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളുടെ ഒരു ബാർ ഉണ്ട് X̄ അടിസ്ഥാനപരമായി ഉപഗ്രൂപ്പ് വലുപ്പവുമായ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ 5 ഉപഗ്രൂപ്പ് വലുപ്പം ആ പ്രത്യേക ഉപഗ്രൂപ്പിന്റെ ശരാശരി മൂല്യമാണെന്നും R അടിസ്ഥാനപരമായി ആ പ്രത്യേക ഉപഗ്രൂപ്പിലെ എക്സ്മാക്സ് എക്സ്മിൻ ആയിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ ഷിഫ്റ്റിനൊപ്പം നിങ്ങൾ അളന്ന വ്യത്യസ്ത ഉപഗ്രൂപ്പുകളുടെ നിരവധി R മൂല്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് നിരവധി X̄ മൂല്യങ്ങളുമുണ്ട് അതിനാൽ എക്സ് ഡബിൾ ബാർ എന്നതിന്റെ അർത്ഥം അടിസ്ഥാനപരമായി മുഴുവൻ ഷിഫ്റ്റിന്റെയും മൊത്തത്തിലുള്ള ശരാശരിയാണ് കൂടാതെ ഒരു RANGE ബാർ അല്ലെങ്കിൽ ആർ ബാർ രൂപീകരിക്കുന്നതിന് വ്യത്യസ്ത RANGE മൂല്യങ്ങൾ ശേഖരിക്കാനാകും ഇത് event ഇന്റെ ഉപഗ്രൂപ്പിന്റെ ശരാശരി ശ്രേണിയുടെ തരം ആയിരിക്കും അതിനാൽ നിങ്ങൾ പ്രസക്തമായ രീതിയിൽ വിപുലമായ നിരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇതിനകം നടത്തിയ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ചിന്താ പ്രക്രിയയുമായി നിങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം സൂപ്പർവൈസർ എന്ന നിലയിൽ നിങ്ങൾക്ക് സൈക്കിളുകളെക്കുറിച്ച് അറിയാം അവിടെ തകരാറുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഉപഗ്രൂപ്പിംഗ് ഉണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിംഗിന്റെ ഇടവേള ആ പരീക്ഷണാത്മക അടിത്തറകളെയോ അല്ലെങ്കിൽ ആ പരീക്ഷണാത്മക ഡൊമെയ്ൻ പരിജ്ഞാനത്തെയോ അടിസ്ഥാനമാക്കി യുള്ളതായിരിക്കും അതിനാൽ ആ അനുഭവത്തെ അടിസ്ഥാനമാക്കി ഇത് വളരെ കൃത്യമായ സാമ്പിളായി മാറുന്നു അതിനാൽ നിങ്ങൾ ശരിക്കും ഒരു സൂപ്പർവൈസർ എന്ന നിലയിൽ ഈ അളവ് നൽകണം കൂടാതെ ഉപഗ്രൂപ്പുകൾ വളരെ സത്യസന്ധവും സംയോജിതവുമായ രീതിയിൽ നൽകണം കാലാകാലങ്ങളിൽ ഒരു വലിയ സമയ ചക്രവാളത്തിൽ നിങ്ങൾ കണ്ടേക്കാവുന്ന സാധ്യതാ വൈകല്യങ്ങൾ കണക്കിലെടുത്ത് നിങ്ങൾ ഗ്രൂപ്പ് വലുപ്പത്തിന്റെ ഒരു നിശ്ചിത ആവൃത്തി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയും അതിനാൽ X̄ and R ചാർട്ടുകൾ പ്ലോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അടുത്തതായി അറിയാം അതിനാൽ നിങ്ങൾ ശരാശരി X̄ കണക്കാക്കി ഒരു ഉപഗ്രൂപ്പിനുള്ള RANGE കണക്കാക്കി നിങ്ങൾ LIMIT നിശ്ചയിക്കണം LIMITS എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന് ഞാൻ കാണിച്ചുതരാം LIMIT കളുണ്ട് തുടർന്ന് നിങ്ങൾ ഓരോ ഉപഗ്രൂപ്പിനും എക്സ് മൂല്യങ്ങൾ എന്നെന്നേക്കുമായി മാസം മുഴുവനും 30 ദിവസത്തേക്ക് പ്ലോട്ട് ചെയ്തു ശരാശരി കൂടുതലോ കുറവോ ഉറപ്പാക്കണം അതിനാൽ കൂടുതൽ ഉയർന്നതും താഴ്ന്നതുമായ നിയന്ത്രണ പരിധികളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ കുറച്ച് കഴിഞ്ഞ് ആ ഘട്ടത്തിലേക്ക് പോകാൻ പോകുന്നു എന്നാൽ ഇപ്പോൾ ചെക്ക് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം അതിനാൽ മറ്റൊന്ന് ട്രയൽ നിയന്ത്രണ പരിധി നിർണ്ണയിക്കുന്നു നിയന്ത്രണ പരിധി കണക്കാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടെത്തിയ ഉപഗ്രൂപ്പുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ഇത് ശരിക്കും ഒരു തീരുമാനമാണ് ഞങ്ങൾ കണക്കാക്കിയ ഒരു നടപടിക്രമമുണ്ട് ഗ്രൂപ്പ് വലുപ്പം എന്ന് ഞങ്ങൾ പരാമർശിക്കേണ്ട ഈ സ്റ്റാൻഡേർഡ് പട്ടികകൾ ഒരു സ്റ്റാൻഡേർഡ് പട്ടികയുമായി ബന്ധപ്പെട്ട ആവൃത്തിയും വിവിധ സ്ഥിരമായ ഘടകങ്ങളും എങ്ങനെ നിയന്ത്രണ പരിധികൾ മാർഗങ്ങളുടെ ശരാശരിയിൽ സ്ഥാപിക്കാമെന്ന് നിങ്ങളോട് പറയും അത് X double bar ആണ് നിങ്ങൾ കേന്ദ്ര രേഖകളും പരിധികളും പ്ലോട്ട് ചെയ്യുന്നു നിങ്ങൾ റെക്കോർഡുചെയ്യുന്ന എല്ലാ നിരീക്ഷണങ്ങളും ഈ 2 പരിധികൾക്കും മധ്യരേഖയ്ക്കും ഇടയിൽ തുടരുമെന്നതാണ് ആശയം അപ്പോൾ പ്രക്രിയയുടെ ശരാശരി ഒരു വശത്തേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ നിയന്ത്രണ പരിധിയിൽ നിന്ന് അകലെയാണോ എന്ന് നിങ്ങൾക്ക് കണക്കാക്കാം അതിനാൽ ഇവയെല്ലാം വിഭജിക്കാം അതിനാൽ നിങ്ങൾക്ക് ഗുണനിലവാരത്തെക്കുറിച്ച് നിരന്തരമായ നിരീക്ഷണം ഉണ്ടെങ്കിൽ ഇതാണ് മികച്ച അടിസ്ഥാനം യുസിഎല്ലിന് പുറത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോഴെല്ലാം മുകളിലെ നിയന്ത്രണ പരിധി അല്ലെങ്കിൽ കുറഞ്ഞ നിയന്ത്രണ പരിധി ഉണ്ടാകും പ്രക്രിയ നിയന്ത്രണാതീതമാണെന്ന് നമുക്ക് പറയാം കൂടാതെ ഒരു COUNTER MEASURE എടുക്കുക അതിനാൽ ഇത് സാധാരണ നിലയിലേക്ക് മടങ്ങിവരാൻ നിങ്ങൾക്ക് ഈ ചാർട്ടുകളുടെ അവകാശങ്ങളിൽ നിന്ന് പ്രാഥമിക നിഗമനങ്ങളിൽ എത്തിച്ചേരാനാകും അതിനാൽ ഒരു പ്രത്യേക ഉദാഹരണമായി നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം അതിനാൽ ഇതിന് ഒരു നിയന്ത്രണമോ നിയന്ത്രണത്തിന്റെ അഭാവമോ സൂചിപ്പിക്കാൻ കഴിയും നിയന്ത്രണത്തിലുള്ള പ്രക്രിയയെ സൂചിപ്പിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിയും അവ നിയന്ത്രണാതീതമാണ് അവിടെ നമുക്ക് നിയന്ത്രണത്തിൽ നിന്ന് നിയന്ത്രണ പ്രക്രിയയിലേക്ക് ഫോക്കസ് മാറ്റാൻ കഴിയും പ്രോസസ്സ് നിയന്ത്രണാതീതമായതും പ്രോസസ്സ് ശേഷി അളക്കുന്നതിന് വളരെ പ്രധാനമായ സ്പെസിഫിക്കേഷൻ പരിധികളും തമ്മിലുള്ള ബന്ധവും നിങ്ങൾക്ക് നടത്താനാകും അതുപോലെ തന്നെ സിസ്റ്റം മെഷീൻ ചില അസാധാരണമായ ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിക്കുന്നു അത് മിക്കവാറും കേന്ദ്രികൃതം ആയിരിക്കില്ല അതിനാൽ നിർദ്ദിഷ്ട സവിശേഷതകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവിടെ ഉൽപാദന പ്രക്രിയയ്ക്കായി സജ്ജമാക്കിയിരിക്കുന്ന പരിധിക്കുള്ളിലാണ് നിങ്ങൾ കൂടുതൽ തകരാറുകൾ ഉൽപാദിപ്പിക്കുന്നത് അവസാനിപ്പിക്കാം അതിനാൽ എന്തെങ്കിലും ചെയ്യേണ്ടിവരും അതിനാൽ നിങ്ങൾക്ക് സാധാരണ നിലയിലേക്ക് നിയന്ത്രിക്കാൻ കഴിയും അതിനാൽ അത് ഒരു X̄ R ചാർട്ടുകളുടെ ചെക്ക്ലിസ്റ്റിനെ സംബന്ധിച്ചാണ് നിയന്ത്രണ ചാർട്ടുകൾക്ക് തയ്യാറെടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ നോക്കാം ഇതിന് സാധ്യമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്നാമതായി ഒരു പ്രക്രിയയെ സുരക്ഷിതമാക്കാനുള്ള വിവരവും വിശകലനവും നൽകേണ്ടതുണ്ട് തന്നിരിക്കുന്ന പ്രക്രിയയ്ക്ക് സവിശേഷതകൾ പാലിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്നതിന് മാറുന്ന സവിശേഷതകൾ ഉപയോഗിക്കേണ്ട വിവരങ്ങൾ ഉണ്ട് അതിനാൽ അതിനെക്കുറിച്ച് ഒരു വീക്ഷണം ഉണ്ടായിരിക്കണം അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ നിർമ്മാണ പ്രക്രിയ പരിധിക്ക് പുറത്താണെങ്കിൽ മെഷീനിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഡിസൈൻ സവിശേഷതകൾ പരിഷ്കരിക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനം എടുക്കേണ്ടതുണ്ട് അതിനാൽ പ്രക്രിയ ഒന്നുതന്നെയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷിത നിരക്ക് ലഭിക്കും അതിനാൽ ഇവ അസാധുവായ ചില മാനേജുമെന്റ് പ്രശ്നങ്ങളാണ് ഇത് വളരെ ഗൌരവമായി ചെയ്യേണ്ടതുണ്ട് അത് വളരെ പ്രധാനമാണ് അതിനാൽ വിവരങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് പരിശോധനാ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സ്വീകാര്യത നടപടിക്രമങ്ങൾ സ്ഥാപിക്കുകയോ മാറ്റുകയോ ചെയ്യേണ്ടതുണ്ട് നിയന്ത്രണ ചാർട്ടിന് പിന്നിലെ വിശകലന പ്രക്രിയ വിവരിക്കുന്നതിന് സാധ്യമായ ചില ലക്ഷ്യങ്ങളാണിത് ഉൽപാദന സമയത്ത് നിലവിലുള്ള തീരുമാനങ്ങൾക്ക് അടിസ്ഥാനം നൽകുന്നതിന് നിങ്ങൾ ഒരു കൺട്രോൾ ചാർട്ട് ഉണ്ടായിരിക്കണം അതിനാൽ വ്യതിയാനത്തിന്റെ കാരണങ്ങൾക്കായി നിങ്ങൾ വേട്ടയാടേണ്ട സമയപരിധി പരിശോധിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും തുടർന്ന് പ്രവർത്തനം പരിശോധിക്കുന്നതിനും ആവശ്യം ഉണ്ട് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി ഈ പ്രക്രിയ വീണ്ടും നിയന്ത്രിക്കാൻ കഴിയും ഒരു വെണ്ടറിൽ നിന്ന് അന്തിമ ഉപഭോക്താക്കളായ കുറച്ച് പേർ നിർമ്മിച്ചതോ വാങ്ങിയതോ ആയ ഉൽപ്പന്നം സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള നിലവിലെ തീരുമാനങ്ങൾക്ക് നിങ്ങൾ അടിസ്ഥാനം നൽകേണ്ടതുണ്ട് ശരിയല്ലാത്തവയിലേക്ക് പോസ്റ്റുചെയ്യുന്നവയെ നിങ്ങൾക്ക് പൊതുവായി സ്ക്രീൻ ചെയ്യാൻ കഴിയും അതിനാൽ ഇത് വീണ്ടും വളരെ പ്രധാനപ്പെട്ട മറ്റ് വശങ്ങളാണ് അത് ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു നിയന്ത്രണ ചാർട്ടിന് സാധ്യമായ ലക്ഷ്യം ആകാം അതിനാൽ വേരിയബിളുകളുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് X̄ R എന്നിവയ്ക്കായുള്ള നിയന്ത്രണ ചാർട്ടുകൾക്കായി തിരഞ്ഞെടുത്ത വേരിയബിളുകൾ അളക്കാനോ സംഖ്യകളിൽ പ്രകടിപ്പിക്കാനോ കഴിയുന്ന ഒന്നായിരിക്കണം അത് അളവുകൾ ആകാം അത് HARDNESS നമ്പർ ടെൻസൈൽ സ്ട്രെംഗ്റ്റ് പാരാമീറ്ററുകൾ ഭാരം ഇവയെല്ലാം അളക്കാവുന്ന അക്കമിട്ട അളവുകൾ ആയിരിക്കും ഒരു നിയന്ത്രണ ചാർട്ടിനായുള്ള ഉൽപാദനച്ചെലവ് കുറയ്ക്കുന്നതിനുള്ള സാധ്യത ആ തീരുമാനമെടുക്കുന്നതിന്റെ ഗണ്യമായ കാരണം ഉൾക്കൊള്ളുന്ന പ്രതിഫലനങ്ങൾക്കോ പുനർനിർമ്മാണത്തിനോ കാരണമാകുന്ന ഗുണനിലവാര സവിശേഷതകളാണ് നിങ്ങൾ പ്രോസസ് ഉടമയായതിനാൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ദൈനംദിന അറ്റകുറ്റപ്പണി ഉൽപാദന പ്രവർത്തനങ്ങൾ എന്നിവയുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ പെരിറ്റോണിയൽ ഡയാലിസിസ് വഴി ചെയ്യാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അഭിപ്രായമിടുന്നതിനുള്ള മികച്ച ന്യായാധിപൻ നിങ്ങളാണ് മറ്റ് ചില വിശകലനങ്ങളും മുമ്പ് പരാമർശിക്കപ്പെടുന്നു അത് നിരസിക്കലിനും പുനർനിർമ്മാണത്തിനും ഇടയാക്കും പ്രത്യേകിച്ചും കാര്യമായ കാരണം ഉൾപ്പെട്ടിരിക്കുമ്പോൾ നിരസിക്കൽ പുനർനിർമ്മാണം എന്നിവ കാരണം നിയന്ത്രണ ചാർട്ട് ലോജിക് ഉപയോഗിച്ച് നിങ്ങൾ നിയന്ത്രിക്കേണ്ട അളവെടുക്കാവുന്ന അളവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉളവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പോയിന്റുകളാണിത് ഒരു പരിശോധന നിലപാടിൽ നിന്ന് DESTRUCTIVE TESTING എല്ലായ്പ്പോഴും നിയന്ത്രണ ചാർട്ട് ഉപയോഗിക്കുന്നതിനുള്ള ഒരു അവസരത്തെ നിർദ്ദേശിക്കുന്നു കാരണം നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല സാമ്പിൾ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉദാഹരണമായി ഇതിൽ നിന്നും ULTIMATE YIELS STRENGTH ലഭിക്കും സാമ്പിൾ നശിപ്പിക്കുന്ന പരിശോധന നടത്താതെ നിങ്ങൾക്ക് ഈ പാരാമീറ്റർ നേടാൻ കഴിയില്ല അതിനാൽ ഉൽപാദന പ്രക്രിയയിൽ എല്ലാ സാമ്പിളുകളും അളക്കുന്നു മാത്രമല്ല ദിവസാവസാനം നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല അതിനാൽ ഒരു ഉപഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഫ്രീക്വൻസി അടിസ്ഥാനത്തിലോ ഞങ്ങൾക്ക് ഒരു സാമ്പിൾ ഉണ്ടെങ്കിൽ അത് മൊത്തം ഉൽപാദനത്തിന്റെ 1 വലുതായിരിക്കാം കൂടാതെ ഉപഗ്രൂപ്പിംഗും ഉപഗ്രൂപ്പ് തിരഞ്ഞെടുക്കലിന്റെ സമയവും ഉചിതമായ രീതിയിലാണെങ്കിൽ ഇത് 1 മുഴുവൻ ജനസംഖ്യയുടെയും ന്യായമായ എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് നൽകാൻ കഴിയും അതിനാൽ വീണ്ടും അങ്ങനെയാണ് അവാർഡ് തിരഞ്ഞെടുക്കുന്നതും ഏത് അവസ്ഥയും നിയന്ത്രണ ചാർട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ വേരിയബിൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ എല്ലാ പാരാമീറ്ററുകളും അറിഞ്ഞുകഴിഞ്ഞാൽ ഉപഗ്രൂപ്പിംഗിന് എന്ത് അടിസ്ഥാനമാണ് പാലിക്കേണ്ടത് എന്ന ചോദ്യം കാണേണ്ടതുണ്ട് അതിനാൽ ഈ ആശയം ഷെവാർട്ട് നിർദ്ദേശിച്ചു ഷെവാർട്ട് നിർദ്ദേശിച്ച ഈ രീതിയുടെ പിന്നിലെ പ്രധാന ആശയം നിരീക്ഷണങ്ങളെ യുക്തിസഹമായ ഉപഗ്രൂപ്പുകളായി വിഭജിക്കുക എന്നതാണ് കൂടാതെ ഓരോ ഉപഗ്രൂപ്പും കഴിയുന്നത്ര ഏകതാനമായിരിക്കേണ്ട രീതിയിൽ ഉപഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കണം മാത്രമല്ല ഇത് ഒരു ഉപഗ്രൂപ്പിൽ നിന്നുള്ള വ്യതിയാനത്തിന് പരമാവധി അവസരം നൽകുന്നു സൂപ്പർവൈസർ എന്ന നിലയിൽ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത് ആണ് അതിനാൽ ഏത് സമയത്താണ് ഞങ്ങൾ നിരീക്ഷണം നടത്തേണ്ടത് ചലനം ശേഖരിക്കുന്ന ഉപഗ്രൂപ്പിന്റെ ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് നല്ല ഏകത ഉണ്ടായിരിക്കുമ്പോൾ മറ്റൊരു ഉപഗ്രൂപ്പിലെ മറ്റൊരു സമയ ഡൊമെയ്നിലേക്ക് നിങ്ങൾ മാറുന്നു ഉപഗ്രൂപ്പുകൾക്കിടയിൽ നിങ്ങൾക്കറിയാവുന്ന ചില വ്യത്യാസങ്ങളുണ്ട് അതിനാൽ ഇത് പ്രക്രിയയുടെ യഥാർത്ഥ ആരോഗ്യത്തെക്കുറിച്ച് വളരെ നല്ലൊരു കണക്കാണ് നൽകുന്നത് അതിനാൽ ഉൽപാദനത്തെക്കുറിച്ചുള്ള ചാർട്ടുകൾ നിയന്ത്രിക്കുന്നതിന് പ്രയോഗിക്കുന്നതുപോലെ ഉൽപാദന ക്രമത്തിന്റെ ട്രാക്ക് നഷ്ടപ്പെടാതിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇതിനർത്ഥം കാരണം നിയന്ത്രണ ചാർട്ട് ഒരു അസിസ്റ്റ് ടെക്നോളജി മാത്രമാകാം അവസാന ലക്ഷ്യം ശരിക്കും പ്രൊഡക്ഷൻ കൺട്രോൾ ചാർട്ടിന്റെ OUTPUT ഒരു സബ്ഡൊമെയ്ൻ വിവര ശേഖരണ സംവിധാനമായിരിക്കുമെന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഇത് ശരിക്കും ഉയർന്ന തലത്തിലുള്ള പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ഉള്ള ഉത്പ്പാദനം ആയതു കൊണ്ട് പ്രധാന കാരണത്തെ സൂപ്പതി ചെയ്യരുത് കൺട്രോൾ ചാർട്ടിന്റെ ഉദ്ദേശ്യം പ്രോസസ്സ് ശരാശരിയിൽ ഷിഫ്റ്റുകൾ കണ്ടെത്തുന്നത് തുടരുകയാണെങ്കിൽ ഒരു ഉപഗ്രൂപ്പിൽ ഒരു സമയം കഴിയുന്നത്രയും ഉൽപാദിപ്പിക്കുന്ന ഇനങ്ങൾ അടങ്ങിയിരിക്കണം പിന്നീട് അടുത്ത ഉപഗ്രൂപ്പിൽ ഒരേ സമയം ഉൽപാദിപ്പിക്കുന്ന എല്ലാ ഇനങ്ങളും അടങ്ങിയിരിക്കണം കൂടാതെ അങ്ങനെ അതിനാൽ സമയബന്ധിതമായി നിങ്ങൾക്ക് ഉപഗ്രൂപ്പുകളുടെ വലുപ്പവും ആവൃത്തിയും തീരുമാനിച്ചതിനേക്കാൾ ആ ഉപഗ്രൂപ്പുകളിൽ ഇടമുണ്ടാക്കാം ഷെവാർട്ട് ഈ നിയന്ത്രണ ചാർട്ട് അനുഭവത്തിന് പുറത്താണ് കണ്ടുപിടിച്ചത് അനുയോജ്യമായ ഉപഗ്രൂപ്പുകളുടെ വലുപ്പമായി 4 അദ്ദേഹം നിർദ്ദേശിച്ചു ഒരു കോഡ് ചെയ്ത വേരിയബിൾ വിശകലനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യാവസായിക ഉപയോഗങ്ങളിൽ 5 ഒരു മികച്ച ബദലായി തോന്നുന്നു കാരണം കണക്കുകൂട്ടലുകളുടെ എളുപ്പത തന്നെ കാരണം അതിനാൽ ഒരു കോഡെഡ് വേരിയബിളിനെക്കുറിച്ചുള്ള അവസാന പ്രഭാഷണത്തിൽ നിങ്ങൾ കണ്ടതുപോലെ 5 അല്ലെങ്കിൽ 10 ന്റെ ഗുണിതങ്ങൾ ആകാം 4 അല്ലെങ്കിൽ 6 പോലുള്ള ഗ്രൂപ്പ് വലുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലായ്പ്പോഴും ഒരു മികച്ച കാൽക്കുലേറ്റർ അല്ലെങ്കിൽ എളുപ്പമുള്ള കാൽക്കുലേറ്റർ അതിനാൽ 5 മികച്ചതായി തോന്നുന്നുവെങ്കിലും 4 അക്കാലത്ത് ഒരു അനുയോജ്യമായ ഉപഗ്രൂപ്പായി കണക്കാക്കപ്പെട്ടിരുന്നു ഒരു ഉപഗ്രൂപ്പിനുള്ളിലെ വ്യതിയാനത്തിന് ഏറ്റവും കുറഞ്ഞ അവസരം നൽകുന്ന രീതിയിലാണ് നിയന്ത്രണ ചാർട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനാൽ 2 അല്ലെങ്കിൽ 3 ന്റെ ഉപഗ്രൂപ്പിന്റെ വലുപ്പം കഴിയുന്നത്ര ചെറുതായിരിക്കേണ്ടത് അഭികാമ്യമാണ് പ്രത്യേകിച്ചും നല്ല നേട്ടത്തിനായി പ്രത്യേകിച്ചും അളവുകളുടെ വില വളരെ ഉയർന്നിരിക്കുമ്പോൾ അതിനാൽ ഒരു ചെറിയ ഉപഗ്രൂപ്പ് വലുപ്പം സൃഷ്ടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ചിലവ് ലാഭിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം ഒരേയൊരു കാര്യം നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് ഉപഗ്രൂപ്പ് വലുപ്പം ജനസംഖ്യയുടെ പ്രതിനിധിയായിരിക്കണം എന്നതാണ് അതിനാൽ ഒരു ലൈനിന്റെ സൂപ്പർവൈസർ നേരിടുന്ന വെല്ലുവിളി അതാണ് അയാളാണ് യഥാർത്ഥത്തിൽ ഈ റെക്കോർഡിംഗ് നടത്തുന്നത് കൂടാതെ അനുഭവസമ്പന്നനായ ഡൊമെയ്ൻ പരിജ്ഞാനം ഉള്ള വ്യക്തിയുടെ പ്രക്രിയയുമായി നേരിട്ടുള്ള ബന്ധത്തിന്റെ ചിത്രത്തിലേക്ക് വരുന്നു അതിനാൽ നിയന്ത്രണ ചാർട്ട് ചെറിയ മാറ്റങ്ങളോട് സംവേദനക്ഷമമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 10 അല്ലെങ്കിൽ 20 ന്റെ വലിയ ഉപഗ്രൂപ്പുകൾ ചിലപ്പോൾ ഉചിതമായിരിക്കും എന്നാൽ സാധാരണയായി പിന്തുടരുന്ന പ്രിൻസിപ്പൽ 5 വാക്കുകളിൽ കൂടാത്ത ഉപഗ്രൂപ്പ് പ്രസിദ്ധികരിക്കുന്നതു ആണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് വലുപ്പ ആവൃത്തി ഉണ്ട് ഈ ഉപഗ്രൂപ്പിംഗിന്റെ അടിസ്ഥാനം തിരഞ്ഞെടുക്കലുകളുടെ പരിശോധന വേരിയബിളുകളുടെ തിരഞ്ഞെടുപ്പ് എന്നിങ്ങനെയുള്ള മറ്റ് എല്ലാ തീരുമാന മാനദണ്ഡങ്ങളും നിങ്ങൾക്കുണ്ട് ഇപ്പോൾ നിങ്ങൾ ഡാറ്റ റെക്കോർഡുചെയ്യാൻ തയ്യാറാണ് അതിനാൽ ഡാറ്റ റെക്കോർഡുചെയ്യുന്നതിനുള്ള അനുയോജ്യമായ ഫോം നോക്കാം കാര്യങ്ങൾ ചെയ്യുന്ന നിർമ്മാണ കേന്ദ്രത്തിൽ നിങ്ങൾ ഇത് പ്രദർശിപ്പിക്കണം ഇത് ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിയന്ത്രണ ചാർട്ടിനെക്കുറിച്ചാണ് അതിനാൽ ഞങ്ങൾക്ക് പ്രോബബിലിറ്റി ഡിസ്പ്ലേയുള്ള ഒരു പേജിൽ അത് കാണാൻ കഴിയും ഉൽപാദന കേന്ദ്രമായ സ്ഥലത്ത് എവിടെയെങ്കിലും നിങ്ങൾ അത് അളക്കുകയും റെക്കോർഡുചെയ്യുകയും ഒരു പ്രത്യേക കേസുമായി ബന്ധപ്പെടുകയും വേണം ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവർ ഒരു മില്ലിംഗ് സ്ലോട്ടിന്റെ വീതി അളക്കുന്നു ഇത് വാസ്തവത്തിൽ ഒരു കമ്പനി ലൈൻ നൽകിയ ചില വിവരങ്ങൾ അല്ലെങ്കിൽ അവർ ഒരു ടെർമിനൽ ബ്ലോക്കിനെക്കുറിച്ച് സംസാരിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഒരു വൈദ്യുത ഘടകമാണ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഓർഡർ നമ്പർ തുടങ്ങിയ ചില ഫിറ്റ് പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഈ പ്രാതിനിധ്യങ്ങളിൽ വിശദമായ വിവരണം എങ്ങനെ നിർമ്മിക്കാമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അവ 0 001 ഇഞ്ച് ആണെന്ന് പറയുന്ന അളവിന്റെ യൂണിറ്റിൽ 0 8000 ഇഞ്ചിൽ കൂടുതൽ ആണ് എന്ന് നൽകിയിട്ടുണ്ട് അതിനർത്ഥം സാധാരണയായി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഒരേ കോഡ് ചെയ്ത വേരിയബിൾ വിശകലനം നടത്തി എന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഈ മൂല്യങ്ങളെല്ലാം മൂല്യത്തിന്റെ 0 8 0 0001 മടങ്ങ് റിപ്പോർട്ടുചെയ്തു അതിനാൽ അടിസ്ഥാനപരമായി ഇത് യഥാർത്ഥത്തിൽ 0 8772 പ്രതിനിധീകരിക്കുന്നു ഇതും വീണ്ടും 0 8756 അത്തരത്തിലുള്ള ഒന്ന് അതിനാൽ ഇവിടെ കോഡ് ചെയ്ത വേരിയബിൾ 0 800 ഇഞ്ചും കൂടാതെ നിരീക്ഷണത്തിന്റെ 0 0001 ഇഞ്ച് തവണ രേഖപ്പെടുത്തിയ ഘടകവുമാണ് ദശാംശസ്ഥാനം എഴുതുന്നതും മുഴുവൻ മൂല്യങ്ങളും എഴുതുന്നതും അല്ലാതെ ഒരു ചിത്രത്തിലേക്ക് വേരിയബിളിനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്നിടത്ത് ഇത് എളുപ്പമാണ് അതിനാൽ ഇവിടെ വ്യത്യസ്ത ഉപഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ഒരു ഉപഗ്രൂപ്പ് 2 3 4 5 6 തുടങ്ങിയവ 16 ഉപഗ്രൂപ്പുകളോട് അടുക്കുന്നു ചില സമയത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണിത് ഉപഗ്രൂപ്പ് നമ്പർ നോക്കിയാൽ കൃത്യമായി 5 ഘടകങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഉപഗ്രൂപ്പ് A to E എന്നും അവയുടെ റെക്കോർഡിംഗ് വ്യത്യസ്ത ഘട്ടങ്ങളിൽ നടക്കുന്നുവെന്നും കാണാം മൊത്തം കണക്കാക്കി ശരാശരി കണക്കാക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് അതിനാൽ നിങ്ങൾക്ക് കണക്കാക്കിയ ഗ്രൂപ്പ് ശരാശരി ഉണ്ട് പരമാവധി മൈനസ് മിനിമം നിരീക്ഷണത്തിലെ ഏറ്റവും കുറഞ്ഞ മൈനസിൽ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന ഒരു range ണ്ട് തുടർന്ന് നിങ്ങൾക്ക് റെക്കോർഡിംഗിന്റെ തീയതിയോ സമയമോ ഉണ്ട് അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 7th MARCH ഇന്റെ തീയതിയും സമയവും ഉണ്ട് അതിനാൽ 7th മാർച്ചിൽ 3 ഉപഗ്രൂപ്പുകളും 8th മാർച്ചിൽ 3 ഉപഗ്രൂപ്പുകളും 9th മാർച്ചിൽ 3 ഉപഗ്രൂപ്പുകളുമുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി ഇത് എല്ലാ ദിവസവും 3 ഗ്രൂപ്പുകളാണ് 3rd മാര്ച്ച് മുതൽ ഏപ്രിൽ 2nd വരെ വ്യത്യാസമുള്ള 3 ഉപഗ്രൂപ്പ് ഉല്പാദനം ഉണ്ട് അതിനാൽ ഈ പ്രത്യേക CONTROL ചാർട്ടിൽ നിങ്ങൾ ഇവിടെ ഒരു മാസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനാൽ X̄ R എന്നിവയ്ക്കായി ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ എല്ലാ X̄ ഉം ഇവിടെയുണ്ട് അവ ഈ പ്രത്യേക ശരാശരി X̄ R ശ്രേണിയിൽ റിപ്പോർട്ടുചെയ്യുന്നു ആർ ശ്രേണി ഇവിടെ 770 ആയി പകർത്താം ഉദാഹരണത്തിന് ഉപഗ്രൂപ്പിന്റെ ആദ്യ ശരാശരി ഇവിടെ ശ്രേണി 85 ആണ് അതിനാൽ റിപ്പോർട്ടിംഗ് 85 1 മുതൽ 16 ദിവസങ്ങൾ വരെ വ്യത്യാസപ്പെടാം കൂടാതെ 1 മുതൽ 16 ഉപഗ്രൂപ്പുകൾക്കായി റെക്കോർഡിംഗ് എടുക്കുകയും നിങ്ങൾക്ക് വിവിധ X̄ വിവിധ ശ്രേണികൾ ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ എല്ലാ X̄ ന്റെയും ആകെത്തുക എല്ലാ ശ്രേണികളുടെയും ആകെത്തുകയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ശരാശരി 16 കൊണ്ട് ഹരിച്ചാൽ ഉപഗ്രൂപ്പുകളുടെ എണ്ണം കണക്കാക്കാം അതിലൂടെ നിങ്ങൾക്ക് എക്സ് ഡബിൾ ബാർ ആർ ബാർ എന്നിവ കണക്കാക്കാം അതിനർത്ഥം അടിസ്ഥാനപരമായി 12129 എല്ലാ X̄ യുടെയും സമർപ്പണം 16 കൊണ്ട് ഹരിച്ചാൽ 758 ന് അടുത്തായി വരും ഇതിനർത്ഥം ഒരു ഇഞ്ചിന്റെ 0 8758 അളവാണ് ശരാശരി എന്നാണ് R ബാറിന് 39 ശ്രേണി ഉണ്ട് ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വ്യത്യസ്ത ശ്രേണികളിലെ submission 621 ആണ് ഉപഗ്രൂപ്പുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കപ്പെടുന്നത് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഷെവാർട്ട് നിയന്ത്രണ രീതിയിലേക്ക് മടങ്ങേണ്ടതുണ്ട് അവർ പ്ലോട്ട് എക്സ് ചാർട്ടുമായി ബന്ധപ്പെട്ട ഘടകത്തെക്കുറിച്ച് ശരിക്കും സംസാരിച്ചിരുന്നു അതിനാൽ സാധാരണയായി 2 നിയന്ത്രണ പരിധികൾ സജ്ജീകരിക്കേണ്ടതുണ്ട് ഒന്ന് എക്സിന്റെ മുകളിലെ നിയന്ത്രണ പരിധി മറ്റൊന്ന് എക്സിന്റെ താഴ്ന്ന നിയന്ത്രണ പരിധി പ്രോസസ്സിനിടയിൽ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ആ പട്ടിക നിങ്ങളുമായി പങ്കിടാൻ പോകുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ കൈവശമുള്ള ഉപഗ്രൂപ്പുകളുടെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ A2 മൂല്യവും A3 മൂല്യവും തിരഞ്ഞെടുക്കാനാകും നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ 2 മൂല്യം അടിസ്ഥാനപരമായി മുകളിലെ നിയന്ത്രണ പരിധി എക്സ് DOUBLE ബാർ PLUS എ 2 ആർ ബാർ എന്നിവയാണ് നമുക്ക് ഈ UCL എക്സ് മൂല്യം നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ് DOUBLE ബാർ പ്ലസ് എ 2 ആർ ബാർ ഉണ്ട് കൂടാതെ നിങ്ങൾ ഇവിടെ UCL എക്സ് മൂല്യവും എക്സ് DOUBLE ബാർ മൈനസ് എ 2 ആർ ബാർ ഉം ഉണ്ട് ഈ പദപ്രയോഗങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് UCL X̄ and LCL X̄ എന്നിവ എ 2 മൂല്യത്തിന്റെ 5 ന്റെ ഉപഗ്രൂപ്പ് വലുപ്പവുമായി പൊരുത്തപ്പെടുന്നതായി വരുന്നു ഇത് യഥാർത്ഥത്തിൽ ഒന്നാണ് അത് ഷെവാർട്ട് പട്ടികയിൽ നൽകിയിരിക്കുന്നു ഞാൻ പോകുന്നു പിന്നീട് ആ പട്ടിക പങ്കിടുക അതിനാൽ ഉപഗ്രൂപ്പ് വലുപ്പം 5 എ 2 1 ആണ് അതിനാൽ പ്ലോട്ടിംഗ് സംഭവിക്കുന്നത് "X A2 'R ആണ് ഇവിടെ "X മുകളിലെ നിയന്ത്രണ പരിധി UCLx ഉം "X -A2 'R ഉം താഴ്ന്ന നിയന്ത്രണ പരിധി LCLx ആണ് അതിനാൽ LCL X̄ ലെ UCLx ഇങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്ന് പറയാം അതിനുശേഷം നമുക്ക് യുസിഎൽ ആർ ഉണ്ടാകും ഇത് അടിസ്ഥാനപരമായി റേഞ്ച് ചാർട്ടുകളുടെ മുകളിലെ നിയന്ത്രണ പരിധിയാണ് അതിനാൽ ശ്രേണികളെ വിവരിക്കുന്ന ഒരു ചാർട്ട് നിങ്ങളുടെ പക്കലുണ്ട് കൂടാതെ അളവുകളുടെ അളവിന്റെ എക്സ് മൂല്യങ്ങൾ വിവരിക്കുന്ന ഒരു ചാർട്ടും നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങൾ 6 ൽ താഴെയുള്ള ഒരു ഉപഗ്രൂപ്പ് ചെയ്യുമ്പോൾ താഴ്ന്ന നിയന്ത്രണ പരിധി റെക്കോർഡുചെയ്യുന്ന ബി 3 യഥാർത്ഥത്തിൽ 0 ആണെന്ന് ഷെവാർട്ട് രീതി പറയുന്നു അതിനാൽ 6 ന് മുകളിൽ എല്ലായ്പ്പോഴും ശ്രേണിക്ക് കുറഞ്ഞ നിയന്ത്രണ പരിധി ഉണ്ട് അത് ചിത്രമായി പുറത്തുവരും ഇവ ഒരു ചാർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ നിരീക്ഷണങ്ങളാണ് അത്തരം പല നിയന്ത്രണ ചാർട്ടുകളിൽ നിന്നും നിയന്ത്രണത്തിലുള്ള പ്രക്രിയ നിയന്ത്രണാതീതമാണെന്ന് നമുക്ക് കാണാൻ കഴിയും 5 ന്റെ ഉപഗ്രൂപ്പ് വലുപ്പത്തിന് സമാനമായ ഷെഹാർട്ട് നിയന്ത്രണ ചാർട്ടിൽ D4 മൂല്യം 2 11 ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഈ D4 2 11 ആയി കരുതാം അതിനാൽ നിങ്ങൾക്ക് ഈ ശ്രേണിയിൽ ഒരു ഉയർന്ന നിയന്ത്രണ പരിധിയും ശ്രേണിയുടെ കുറഞ്ഞ നിയന്ത്രണ പരിധിയും ഉണ്ടായിരിക്കാം കാരണം ഇത് 6 ൽ കുറവുള്ളതും 0 ന് തുല്യവുമായ ഒരു ഉപഗ്രൂപ്പാണ് അതിനാൽ LIMITS പ്ലോട്ട് ചെയ്യുന്നതിന് പിന്നിലെ മുഴുവൻ CONTROL ലോജിക്കും ഇതാണ് ചാർട്ട് റേഞ്ച് ചാർട്ടിലും എക്സ് ഡബിൾ ബാർ ചാർട്ടിലും മുകളിലുള്ള നിയന്ത്രണ പരിധിയും താഴ്ന്ന നിയന്ത്രണ പരിധിയുമായ ശരാശരി മൂല്യം നിങ്ങൾ വരയ്ക്കണം ഈ 2 ചാർട്ടുകളും സാധാരണ ഒരു പേപ്പറിൽ ഗ്രാഫിക്കലായി പ്ലോട്ട് ചെയ്യുന്നു ഈ കാലയളവുകൾക്കപ്പുറത്ത് നിങ്ങളുടെ ഉപഗ്രൂപ്പുകൾ നിരീക്ഷിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിയന്ത്രണ പരിധികൾ കണക്കാക്കാൻ ഈ കാലയളവുകൾ ഉപയോഗിക്കാം എന്നാൽ ഈ കാലയളവിനപ്പുറവും ഈ ഉൽപാദനം നിലവിലുണ്ട് അതിനാൽ നിങ്ങൾ ശരാശരി വിപുലീകരിക്കുന്നതിന് പ്ലോട്ട് ചെയ്യുന്നത് തുടരേണ്ടതുണ്ട് ശ്രേണി സമാനമായ രീതിയിൽ മൂല്യങ്ങൾ മൂല്യവത്താക്കുന്നു നിങ്ങൾ മാറ്റേണ്ട ഒരേയൊരു കാര്യം ഈ റെക്കോർഡ് ഒരു മാസം മുതൽ രണ്ട് മാസം വരെ ഓരോ തവണയും ഒരുപക്ഷേ ഏപ്രിൽ മുതൽ മെയ് വരെ നിങ്ങൾക്ക് ഒരു ഫോം ഉണ്ടാകും മെയ് മുതൽ ജൂൺ വരെ നിങ്ങൾക്ക് ഒരു ഫോം ഉണ്ടാകും ഒരേ തീയതിയിൽ നിങ്ങൾക്ക് മറ്റൊരു ഫോം ഉണ്ടാകും ഈ കാലയളവിൽ ശരാശരി നിയന്ത്രണ പരിധി എന്നിവയുടെ വിപുലീകരണം നടക്കുന്നു അവിടെ ഓരോ മാസവും റെക്കോർഡിംഗിനായി നിങ്ങൾ സൃഷ്ടിക്കുന്ന പ്രത്യേക പോയിന്റുകൾ ഒരേ വരിയിൽ വിപുലീകരിക്കുന്നു അതിനാൽ ഒരു മാസത്തെ ഉൽപാദനം പരിധിക്ക് പുറത്താണോ അതോ അതനുസരിച്ച് ഒരു COUNTER മെഷർമെൻറ് എടുക്കുന്നോണ്ടോ എന്ന് 6 മാസമോ 7 മാസമോ വേഗത്തിൽ ലാഭിക്കാൻ സമയ പരിധിയിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിലുള്ള പദ്ധതികൾ നടത്താൻ കഴിയും അതിനാൽ നിങ്ങൾ CONTROL ചാർട്ട് X̄ R ചാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നീട് പ്ലോട്ട് കാണിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ദശാംശത്തിന്റെ മൂന്നാമത്തെ അക്കമുള്ളതും ദശാംശത്തിന്റെ രണ്ടാം അക്കം സൃഷ്ടിച്ചതുമായ സാഹചര്യം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇത് മറ്റൊരു രീതിയിൽ ചെയ്യാൻ കഴിയും അതിനാൽ ദശാംശത്തിന്റെ 2 അക്കങ്ങൾ വരെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യത്തിന്റെ കോഡഡ് രീതിയിൽ 0 800 0 001 തവണ ഇത് പ്രതിനിധീകരിക്കാമെന്ന് നമുക്ക് പറയാം സമാനമായ രീതിയിൽ ഈ സ്ലോട്ട് വീതി അളക്കുന്നതിന് നമുക്ക് കുറച്ച് പാഠം കൃത്യമായ വിശകലനം നടത്താം അതിനാൽ ഇവിടെയുള്ള ഒരേയൊരു പ്രശ്നം ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം എന്നതാണ് മില്ലിംഗ് പ്രക്രിയ അവസാനിച്ചതിനുശേഷം നിർദ്ദിഷ്ട വർക്ക്പീസിലെ താപനില നോക്കാൻ ഓപ്പറേറ്റർ മറക്കുന്നുവെന്ന് കരുതുക ഇത് വർക്ക് പീസ് ചൂടാക്കി മാറ്റുകയും ഡൈമൻഷണൽ ലീനിയർ എക്സ്പാൻഷൻ ഉണ്ടാകുകയും ചെയ്യും അതിനാൽ ഇത് റെക്കോർഡുചെയ്യുന്ന ഓപ്പറേറ്റർ അത് അബദ്ധവശാൽ കണക്കിലെടുക്കാൻ മറന്നാൽ എല്ലായ്പ്പോഴും ഒരു വലുപ്പമുണ്ടായിരിക്കാം കാരണം ഈ ഭാഗം സ്ലോട്ടിലുടനീളം വ്യാപിക്കുമായിരുന്നു സ്ലോട്ടിന്റെ വീതി കുറവായിരിക്കും അതിനാൽ ആ വിഷയം അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട് വ്യക്തമായും ഉപഗ്രൂപ്പിംഗ് മുതലായവ തീരുമാനിച്ച നിയന്ത്രണ അതോറിറ്റിയാണ് സൂപ്പർവൈസർ ഈ മില്ലിംഗ് സ്ലോട്ട് നിർമ്മിക്കുന്ന സ്ഥലത്തും അദ്ദേഹം ഇത് മനസ്സിൽ വയ്ക്കണം അതിനാൽ പ്രക്രിയ വിവേകപൂർവ്വം വിഭജിക്കപ്പെട്ടിരിക്കുന്നു വ്യത്യസ്ത തരം ഫിറ്റ്മെന്റ് ഓപ്പറേഷനുകൾക്കും മില്ലിംഗ് ഡ്രില്ലിംഗ് പോലുള്ള നിരവധി MACHINING ഓപ്പറേഷനുകൾക്കും എല്ലാ തലങ്ങളിലും ഒരേ യുക്തി ഉപയോഗിക്കാം അതിനാൽ സമയം കാരണം ഇന്നത്തെ മൊഡ്യൂൾ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പ്രോസസ്സിനെക്കുറിച്ച് എന്തെങ്കിലും വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്ന നിയന്ത്രണ ലോജിക് എന്താണെന്നതിനെക്കുറിച്ചുള്ള ചില അനുബന്ധ പ്രശ്നങ്ങൾ നമുക്ക് കാണാം അതിനാൽ ശരിയായ നടപടിയെടുക്കാം അതിനാൽ അടുത്ത മൊഡ്യൂളിൽ നമുക്ക് അത് ചെയ്യാം